ആശംസകൾ നേരിട്ടുള്ള നിർദ്ദേശത്തെക്കുറിച്ചുള്ള മൊഡ്യൂൾ 3 യൂണിറ്റ് 10 ലേക്ക് സ്വാഗതം മുമ്പത്തെ യൂണിറ്റിൽ മെറിലിന്റെ തത്ത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള നിർദ്ദേശരൂപകൽപ്പന ഞങ്ങൾ മനസ്സിലാക്കി അതിനുമുമ്പ് ഞങ്ങൾ മെറിലിന്റെ പൊതുവായ പഠനതത്ത്വങ്ങൾ പരിശോധിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരു നിർദ്ദേശരൂപകൽപ്പന നിരീക്ഷിച്ചു കൂടാതെ മെറിലിന്റെ എല്ലാ അഞ്ച് തത്ത്വങ്ങളും നടപ്പിലാക്കുന്ന നിർദ്ദേശ രൂപകൽപ്പന അദ്വിതീയമല്ലെന്നും ഞങ്ങൾ കണ്ടു ഈ യൂണിറ്റിൽ നിന്ന് അടുത്ത 3 4 യൂണിറ്റുകൾക്കായി ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള രചനകളിൽ നിന്നും ലഭ്യമായ നിർദ്ദേശങ്ങൾക്കായി ഞങ്ങൾ ചില ജനപ്രിയ മോഡലുകൾ നോക്കുന്നു ഈ സമീപനങ്ങളെക്കുറിച്ച് ഗണ്യമായ ഗവേഷണം നിലവിലുണ്ട് ഈ നിർദ്ദേശങ്ങളുടെ കാര്യക്ഷമതയെയും ഫലപ്രാപ്തിയെയും കുറിച്ച് ഞങ്ങൾക്ക് ധാരാളം അനുഭവപരമായ തെളിവുകൾ ഉണ്ട് ഈ നിർദ്ദേശരീതികൾ എത്ര ആകർഷകമാണ് എന്നതിനെക്കുറിച്ചുള്ള ചില വിവരങ്ങളും ഞങ്ങളുടെ പക്കലുണ്ട് നിങ്ങളിൽ ചിലർക്ക് ഈ രീതികളിൽ ചിലത് പരിചിതമായിരിക്കാം പക്ഷേ ഈ രീതികളിലേക്ക് കടന്നുവന്ന ഗവേഷണത്തിന്റെ ഗണ്യമായ ഭാഗം കാരണം ഈ രീതികളെ വളരെ ഘടനാപരവും ചിട്ടയായതുമായ രീതിയിൽ കാണാൻ ഞങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞു നിങ്ങളുടേതായ ഒരു പ്രബോധന സമീപനം നിങ്ങൾ രൂപകൽപ്പന ചെയ്യുകയാണെങ്കിൽ ഇത് ഒരു തരത്തിലുള്ള റഫറൻസായി വർത്തിക്കുകയും നിങ്ങൾക്ക് പല തരത്തിൽ പരിശോധിക്കാനും ആവശ്യമായ ഘടകങ്ങൾ എല്ലാം നിങ്ങളുടെ നിർദ്ദേശപരമായ സമീപനത്തിൽ ഉണ്ടോ എന്ന് കാണാനും കഴിയും ഈ ശ്രേണിയിലെ ആദ്യത്തേത് നേരിട്ടുള്ള നിർദ്ദേശമായിരിക്കും ഈ യൂണിറ്റിൽ നേരിട്ടുള്ള നിർദ്ദേശത്തിന്റെ തത്ത്വങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കും ഇത് പരമ്പരാഗത ക്ലാസ് റൂം ക്രമീകരണത്തിലെ മുഖാമുഖ നിർദ്ദേശമാണ് അതിൽ പറയുക ഒരുപക്ഷേ നമ്മളിൽ മിക്കവർക്കും ഇത് നന്നായി അറിയാം പക്ഷേ നേരിട്ടുള്ള നിർദ്ദേശത്തിന്റെ ഈ അറിയപ്പെടുന്ന രീതിയുടെ എല്ലാ ഘടകങ്ങളും എന്തൊക്കെയാണെന്ന് അറിയാ൯ നാം കൂടുതൽ ചിട്ടയായ രീതിയിൽ നോക്കേണ്ടതുണ്ട് പരമ്പരാഗത ക്ലാസ് റൂം ക്രമീകരണത്തിൽ ഇത് അടിസ്ഥാനപരമായി മുഖാമുഖ നിർദ്ദേശമാണ് പ്രത്യേകിച്ചും ഔപചാരിക പ്രോഗ്രാമുകളിൽ ഇത് നിർദ്ദേശത്തിനുള്ള ഏറ്റവും സാധാരണമായ സമീപനമായി തുടരുന്നു ഔപചാരിക പ്രോഗ്രാമുകളിൽ ഒരു നിശ്ചിത സമയത്ത് നൽകേണ്ട ഉള്ളടക്കം പൊതുവെ വളരെ വിശാലമാണ് സിലബസ് പൊതുവെ വളരെ വിപുലമാണ് കൂടാതെ നിർദ്ദേശ ഷെഡ്യൂളുകൾ വളരെ കർക്കശവുമാണ് ടെസ്റ്റുകൾ ക്വിസുകൾ ആന്തരിക വിലയിരുത്തലിന്റെ മറ്റ് ഘടകങ്ങൾ ഒടുവിൽ സെമസ്റ്റർ അവസാനപരീക്ഷ ഇവയെല്ലാം നടത്തേണ്ടിവരുമ്പോൾ വളരെ കർക്കശമാണ് അതിനാൽ ഏതെങ്കിലും പ്രത്യേക രീതി നടപ്പിലാക്കാൻ ലഭ്യമായ സമയത്തിന് കടുത്ത നിയന്ത്രണങ്ങളുണ്ട് ആ സന്ദർഭത്തിൽ നേരിട്ടുള്ള നിർദ്ദേശം ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന സമീപനമായി തുടരുന്നു കാരണം ഈ പരിമിതികൾക്കനുസൃതമായി വിഭവവിനിയോഗത്തിന്റെ കാര്യത്തിൽ ഇത് വളരെ കാര്യക്ഷമമാണ് ഇത് ഫലപ്രദമാകാം പക്ഷേ ഈ സമീപനം വളരെ ആകർഷകമാക്കുന്നതിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം എന്നാൽ അത് അസാധ്യമല്ല ഇതിന് ചില പ്രത്യേക ശ്രമങ്ങൾ ആവശ്യമാണ് പ്രാഥമികമായി മുൻഗണനാടിസ്ഥാനത്തിൽ കാര്യക്ഷമതയെ ഫലപ്രാപ്തിയെക്കാൾ വിലമതിക്കുന്നു ഒപ്പം പ്രബോധനത്തിന്റെ സ്വഭാവവും ഈ സമീപനത്തിന്റെ പ്രാഥമിക പ്രചോദനം കാര്യക്ഷമതയാണ് തീർച്ചയായും ഈ സമീപനത്തിലെ ഒരു പൊതുവായ ആശങ്ക അവരുടെ എല്ലാ വ്യതിയാനങ്ങളും കൂടി ഒരു എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിലേക്ക് പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ താരതമ്യേന തുല്യഗുണമുള്ളവരാണ് എന്നതാണ് വിദ്യാർത്ഥികളുടെ വൈജ്ഞാനിക കഴിവുകളിലും അവരുടെ എൻട്രിലെവൽ കഴിവുകളുടെ നിലവാരത്തിലും അവരുടെ പ്രചോദനത്തിലും ഇപ്പോഴും കാര്യമായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് നേരിട്ടുള്ള നിർദ്ദേശത്തിൽ ഈ വ്യത്യാസങ്ങൾ ഉൾക്കൊള്ളുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നിരുന്നാലും വിദ്യാർത്ഥികൾക്ക് അവരുടെ വൈജ്ഞാനിക കഴിവുകളിലും മുൻവ്യവസ്ഥാ പരിജ്ഞാനത്തിലും പ്രചോദനത്തിലും കാര്യമായ വ്യത്യാസമുണ്ടെന്ന വസ്തുത ഞങ്ങൾക്ക് അവഗണിക്കാനാവില്ല മന്ദഗതിയിലുള്ള പഠിതാക്കളെയും വേഗത്തിലുള്ള പഠിതാക്കളെയും ഒരുപക്ഷേ കുറഞ്ഞ പ്രചോദന നിലവാരമുള്ളവരെയും ഉയർന്ന പ്രചോദന നിലകളുള്ളവരെയും അഭിസംബോധന ചെയ്യുന്നതിന് ഞങ്ങൾക്ക് പ്രത്യേക സമീപനങ്ങൾ ആവശ്യമാണ് അത് നേരിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേക വീക്ഷണമായിരിക്കും പഠിതാക്കളിൽ ഈ വ്യത്യാസങ്ങൾ ഉൾക്കൊള്ളുന്നതിൽ നേരിട്ടുള്ള നിർദ്ദേശം അത്ര നല്ലതല്ല ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള രചനകളിൽ നേരിട്ടുള്ള നിർദ്ദേശത്തിനായി നിരവധി മോഡലുകൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് ഈ മോഡലുകളുടെയെല്ലാം ഒരു പൊതു സ്വാഭാവം അധ്യാപകന്റെ സജീവ അവതരണം വഴി അവശ്യഉള്ളടക്കം വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു എന്നതാണ് മറ്റൊരു പൊതു സവിശേഷത അധ്യാപകർ വിദ്യാർത്ഥികളുടെ മുൻഗണന കണക്കിലെടുക്കുന്നുണ്ടെങ്കിലും മുഴുവൻ അധ്യാപന പ്രക്രിയയുടെയും നിയന്ത്രണം അധ്യാപകനാണ് എന്നതാണ് അവർ വിദ്യാർത്ഥികളുടെ മുൻഗണന കണക്കിലെടുക്കുന്നുണ്ടെങ്കിലും മുഴുവൻ പ്രക്രിയയുടെയും നിയന്ത്രണം അധ്യാപകർക്ക് ഉള്ളതിനാൽ നേരിട്ടുള്ള നിർദ്ദേശം അടിസ്ഥാനപരമായി അധ്യാപകൻ നയിക്കുന്ന പ്രക്രിയയാണ് ഇവിടെ അവതരിപ്പിച്ച മോഡലിനെ ട്രാൻസാക്ഷണൽ മോഡൽ എന്ന് വിളിക്കുന്നു മോഡലിൽ അധ്യാപക വിദ്യാർത്ഥി ഇടപെടലുകൾക്ക് നൽകുന്ന പ്രാധാന്യം ഊന്നിപ്പറയുന്നു കാണിച്ചിരിക്കുന്ന മാതൃക അനുസരിച്ച് പ്രാഥമികമായി മൂന്ന് ഘട്ടങ്ങളുണ്ട് അവതരണ ഘട്ടം പരിശീലന ഘട്ടം മൂല്യനിർണ്ണയ ഘട്ടം നിരീക്ഷണത്തിന്റെയും ഫീഡ്ബാക്കിന്റെയും ഒരു ഘടകമുണ്ട് ഇത് യഥാർത്ഥത്തിൽ ഈ മൂന്ന് ഘട്ടങ്ങളിലുടനീളം പ്രവർത്തിക്കുന്നു ആവശ്യമുള്ളപ്പോൾ നിരീക്ഷണവും ഫീഡ്ബാക്ക് വശവും ചിത്രത്തിലേക്ക് വരുന്നു അതിനാൽ മൂന്ന് ഘട്ടങ്ങളിലേക്കുള്ള നിരീക്ഷണം ഫീഡ്ബാക്ക് എന്നിവയിൽ നിന്ന് അമ്പടയാളങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അവതരണം പരിശീലനം വിലയിരുത്തൽ തികച്ചും അനഔപചാരികമായി അവതരിപ്പിക്കുന്നത് ഇൻസ്ട്രക്ടർ ആണ് വിലയിരുത്തലും ഇൻസ്ട്രക്ടറാണ് ചെയ്യുന്നത് പരിശീലനം പ്രാഥമികമായി പഠിതാക്കളാണ് ചെയ്യുന്നത് നിരീക്ഷണവും ഫീഡ്ബാക്കും ഇൻസ്ട്രക്ടറാണ് ചെയ്യുന്നത് ഇത് പ്രാഥമികമായി അധ്യാപകരുമായുള്ള വിദ്യാർത്ഥികളുടെ സജീവമായ ഇടപെടലുമായി ഒരു ഇൻസ്ട്രക്ടർ നയിക്കുന്ന മോഡൽ അല്ലെങ്കിൽ ടീച്ചർ നയിക്കുന്ന മോഡലാണ് ആദ്യ ഘട്ടത്തിൽ അവതരണ ഘട്ടത്തിൽ ഇനിപ്പറയുന്ന അഞ്ച് പ്രവർത്തനങ്ങൾ ഉണ്ട് അവലോകനം എന്ത് എന്തുകൊണ്ട് വിശദീകരണവും അന്വേഷണവും പ്രതികരണം ഈ അഞ്ച് പ്രബോധന പ്രവർത്തനങ്ങൾ നമുക്ക് വിശദമായി നോക്കാം നിലവിലുള്ള വിജ്ഞാനഘടനകളിലേക്ക് പുതിയ വിവരങ്ങൾ ബന്ധിപ്പിക്കുന്നത് വളരെ പ്രധാനമാണെന്ന് കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ നിന്ന് എല്ലാവർക്കും അറിയാം മെറിലിന്റെ ശ്രദ്ധാസിദ്ധാന്തം കൂടിയാണിത് അവതരണ ഘട്ടത്തിലെ ആദ്യത്തെ മൂന്ന് രീതികൾ അവലോകനം എന്ത് എന്തുകൊണ്ട് നിർദ്ദേശങ്ങൾ നടത്തുന്നതിന് ഒരു സമൃദ്ധമായ ഘടന നൽകുന്നു അതിനാൽ പ്രാഥമികമായി ഇത് അവസാന യൂണിറ്റിൽ ഞങ്ങൾ ചർച്ച ചെയ്ത മെറിലിന്റെ തത്ത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഐഡിയുടെ സജീവമാക്കലിനും ശ്രദ്ധയ്ക്കും യോജിക്കുന്നു ട്രാൻസാക്ഷണൽ മോഡൽ ഈ മൂന്ന് നിർദ്ദേശ പ്രവർത്തനങ്ങളെയും ഒരു നിർദ്ദിഷ്ട ക്രമത്തിൽ പട്ടികപ്പെടുത്തുന്നു അവലോകനം എന്ത് എന്തുകൊണ്ട് എന്നിരുന്നാലും ഉചിതമെങ്കിൽ ഇൻസ്ട്രക്ടർക്ക് ഈ ക്രമം മാറ്റാൻ കഴിയും പുതിയ വിവരങ്ങളുടെ വിശദീകരണം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ മൂന്ന് പ്രവർത്തനങ്ങളും പൂർത്തിയാകണം എന്നതാണ് പ്രധാനം ഇൻസ്ട്രക്ടർ പുതിയ അറിവിലേക്ക് നീങ്ങുന്നതിനുമുമ്പ് ഈ മൂന്ന് പ്രവർത്തനങ്ങളും പൂർത്തിയാക്കേണ്ടത് അത്യാവശ്യമാണ് അവലോകനം എന്ത് എന്തുകൊണ്ട് അവലോകനം നടക്കാനിരിക്കുന്ന പുതിയ പഠനത്തിന് പ്രസക്തമായ അറിവ് മുൻകൂട്ടി സജീവമാക്കണം ഈ ആവശ്യത്തിനായി അധ്യാപകന് ഉപയോഗിക്കാൻ കഴിയുന്ന നിരവധി നിർദ്ദേശഘടകങ്ങൾ ഉണ്ട് അധ്യാപകനും വിദ്യാർത്ഥിക്കും ഒരുമിച്ച് അത്തരം കാര്യങ്ങൾ അവലോകനം ചെയ്യാനും ചർച്ച ചെയ്യാനും കഴിയും മുമ്പ് പഠിച്ച പ്രസക്തമായ മുൻവ്യവസ്ഥാ കഴിവുകൾ ഉപയോഗപ്പെടുത്താൻ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ഒരു പ്രവർത്തനം സൃഷ്ടിക്കാൻ അധ്യാപകന് കഴിയും ഈ പ്രവർത്തനം ഒരു പ്രശ്നം പരിഹരിക്കുകയോ ഒരു ചെറിയ ക്വിസ് അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ടപ്രശ്നത്തോടുള്ള ഒരു പ്രത്യേക സമീപനത്തിന്റെ ചർച്ചയോ ആകാം അത് ഗ്രൂപ്പ് ചർച്ചയാകാം പ്രസക്തമായ മുൻവ്യവസ്ഥാകഴിവുകളുടെ മാർഗ്ഗദർശനം ഉറപ്പാക്കുന്നതിന് നിരവധി നിർദ്ദേശഘടകങ്ങൾ എടുക്കാൻ കഴിയും മുൻകാല കഴിവുകളും പുതിയ കഴിവുകളും തമ്മിൽ ബന്ധം സൃഷ്ടിക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണം അതിനാൽ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ പ്രവർത്തനമാണിത് "എന്താണ്" എന്നത് വിദ്യാർത്ഥികൾക്ക് ഇൻസ്ട്രക്ഷണൽ യൂണിറ്റിന്റെ അവസാനത്തിൽ ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതിന്റെ വ്യക്തമായ പ്രസ്താവനയാണ് അത് കോഴ്സ് ഫലമോ കഴിവോ ആണ് ഈ സിഒ യോഗ്യതയുമായി ബന്ധപ്പെട്ട് ഇൻസ്ട്രക്ടർ ഉപയോഗിക്കുന്ന മൂല്യനിർണ്ണയഉപകരണങ്ങൾ മുൻകൂട്ടി പ്രസ്താവിക്കുന്നത് ഒരു നല്ല പരിശീലനമാണ് ഇതും വളരെ പ്രധാനമായി കണക്കാക്കപ്പെടുന്നു അവരെ വിലയിരുത്താൻ ഉപയോഗിക്കുന്ന മാനദണ്ഡം എന്താണെന്ന് വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് ശരിയായ ദിശാബോധം നൽകുന്നതിന് ഇൻസ്ട്രക്ടർ ഉപയോഗിക്കുന്ന മൂല്യനിർണ്ണയ ഉപകരണങ്ങൾ പ്രസ്താവിക്കുന്നത് നല്ലൊരു പരിശീലനമാണ് തന്നിരിക്കുന്ന ഒരു പ്രത്യേക യോഗ്യതയും കോഴ്സ് ഫലവുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം നിർദ്ദേശ സെഷനുകൾ ഉണ്ടാകാം അങ്ങനെയാണെങ്കിൽ ഈ പാഠങ്ങളിൽ ഓരോന്നിനും ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ എന്തായിരിക്കും ഉള്ളടക്കത്തിന്റെ ക്രമം എങ്ങനെ തുടരും എന്നിങ്ങനെ ഈ പാഠങ്ങളുടെ ഒരു ഷെഡ്യൂൾ നൽകാനും ഇത് സഹായിക്കും ഈ പ്രബോധനയൂണിറ്റിന്റെ ഈ പാഠഷെഡ്യൂളിന്റെ രൂപരേഖയും മുൻകൂട്ടി അവതരിപ്പിക്കുകയാണെങ്കിൽ ഇത് സഹായകമാകും എന്ത് ഘട്ടത്തിൽ ഞങ്ങൾ പഠന ഫലത്തിന്റെ വ്യക്തമായ പ്രസ്താവന നൽകുന്നു കോഴ്സ് ഫലം അല്ലെങ്കിൽ കഴിവ് ഉപയോഗിക്കേണ്ട മൂല്യനിർണ്ണയ ഉപകരണങ്ങൾ എന്തായിരിക്കുമെന്ന് ഞങ്ങൾ പ്രസ്താവിക്കുന്നു പാഠങ്ങളുടെ ഷെഡ്യൂളിന്റെ ഒരു രൂപരേഖയും അല്ലെങ്കിൽ നിർദ്ദേശഷെഡ്യൂളായി നിങ്ങൾ വിളിക്കുന്ന കാര്യങ്ങളും ഞങ്ങൾ നൽകുന്നു അടുത്ത പ്രധാന കാര്യം എന്തുകൊണ്ട് എന്നതാണ് ഞാൻ എന്തുകൊണ്ട് ഈ പഠന പ്രക്രിയയിൽ ഏർപ്പെടണം എന്ന വിദ്യാർത്ഥികളുടെ ചോദ്യത്തിന് ഇൻസ്ട്രക്ടർ തൃപ്തികരമായി ഉത്തരം നൽകണം എനിക്കെന്താണ് അതിൽ ഉള്ളത് ഇത് എന്റെ പ്രൊഫഷന് എങ്ങനെ പ്രസക്തമാണ് അവിടെ ഞാൻ ഈ അറിവ് ഉപയോഗിക്കാൻ പോകുന്നു ഈ പ്രത്യേക പഠന പ്രവർത്തനത്തിൽ നിന്ന് എനിക്ക് എന്ത് തരത്തിലുള്ള പ്രശ്ന പരിഹാര കഴിവുകൾ ലഭിക്കും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ യഥാർത്ഥത്തിൽ പഠിതാക്കളുടെ മനസ്സിന്റെ അടിത്തട്ടിൽ ഉണ്ടായിരിക്കും കൂടാതെ വിദ്യാർത്ഥികളുടെ ഈ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായി ഉത്തരം നൽകാൻ ഇൻസ്ട്രക്ടർക്ക് കഴിയുന്നില്ലെങ്കിൽ അത് പഠനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് പലതരം സംഭവവികാസങ്ങൾ ചർച്ചകൾ കേസ് പഠനങ്ങൾ അനുബന്ധ കോഴ്സുകളിൽ ആവശ്യമായ കഴിവുകൾ മുതലായവ ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് അവന്റെ അല്ലെങ്കിൽ അവളുടെ പ്രൊഫഷണൽ ജീവിതത്തിന് പ്രഖ്യാപിത CO യോഗ്യതയുടെ പ്രാധാന്യം കാണാൻ അധ്യാപകന് കഴിയും മുമ്പത്തെ യൂണിറ്റിൽ ഞങ്ങൾ ചർച്ച ചെയ്ത "ശ്രദ്ധ നേടുക" ഇതാണ് അർത്ഥവത്തായ പഠനത്തിൽ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്താൻ ഇൻസ്ട്രക്ടർക്ക് കഴിയുമെന്ന് ഉറപ്പാക്കാൻ ഇത് വളരെ പ്രധാനമാണ് പ്രബോധനഘടകങ്ങളുടെ വിശാലമായ തിരഞ്ഞെടുപ്പ് ഈ തലത്തിൽ നിലവിലുണ്ട് ഇൻസ്ട്രക്ടർക്ക് സാഹചര്യഘടകങ്ങളെ അടിസ്ഥാനമാക്കി ഉചിതമായ ഉദാഹരണങ്ങളും ഉചിതമായ ഉപയോഗങ്ങളും എടുക്കാൻ കഴിയും പക്ഷേ "ഞാൻ എന്തുകൊണ്ടാണ് ഈ പഠന പ്രക്രിയയിൽ ഏർപ്പെടേണ്ടത്" എന്ന കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ആശങ്ക അകറ്റേണ്ടത് വളരെ പ്രധാനമാണ് തുടർന്ന് പുതിയ മെറ്റീരിയലിനെക്കുറിച്ചുള്ള യഥാർത്ഥ നിർദ്ദേശം ആരംഭിക്കുന്നു അതിനാൽ പ്രബോധന പ്രവർത്തനങ്ങൾ 1 2 3 യഥാർത്ഥ നിർദ്ദേശത്തിന്റെ ഒരുതരം ആമുഖമായി മാറുന്നു 4 പുതിയ മെറ്റീരിയലിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ ആരംഭിക്കുന്നിടത്തെ വിശദീകരണമാണ് പ്രബോധനം വിദ്യാർത്ഥികൾക്ക് പ്രസ്താവിച്ച കഴിവുകൾ നേടാനും ആ കഴിവുകൾ പ്രകടിപ്പിക്കാനും സഹായിക്കുമെന്ന് ഞങ്ങൾക്കറിയാം തന്നിരിക്കുന്ന CO യോഗ്യതയ്ക്ക് ഏറ്റവും അനുയോജ്യമായ നിർദ്ദേശ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ഇൻസ്ട്രക്ടർ എടുക്കുന്നു നിർദ്ദിഷ്ട കോഴ്സ് ഫലം കഴിവ് ഇതിനു വേണ്ടി സിഒകളുടെയോ കഴിവുകളുടെയോ ടാക്സോണമി ലെവലിനെ അടിസ്ഥാനമാക്കിയും കോഗ്നിറ്റീവ് പ്രോസസ് ലെവൽ വിജ്ഞാന പ്രക്രിയ എന്നിവ അടിസ്ഥാനമാക്കിയും ഏറ്റവും ഫലപ്രദമാകുന്ന നിർദ്ദേശഘടകങ്ങൾ ഇത് തീർത്തും അധ്യാപകന്റെ തിരഞ്ഞെടുപ്പാണ് ഉചിതമായ നിർദ്ദേശ ഘടകങ്ങൾ ഇൻസ്ട്രക്ടർക്ക് എടുക്കാം അതിനാൽ ഈ ഭാഗം പൂർണ്ണമായും ഇൻസ്ട്രക്ടറുടെ തീരുമാനമാണ് പ്രബോധന ഘടകങ്ങൾ അടിസ്ഥാനപരമായി ഉചിതമായി തിരഞ്ഞെടുക്കണം ഇത് മെറിലിന്റെ "പ്രകടനം" എന്നതിനോട് യോജിക്കുന്നു പഠനം ശരിയായ രീതിയിൽ നടക്കുന്നുവെന്ന് ഉറപ്പാക്കാനുള്ള ഒരു പ്രധാന പ്രവർത്തനമാണ് "അന്വേഷിച്ച് പ്രതികരിക്കുക" പ്രബോധന വേളയിൽ അധ്യാപകൻ അവതരിപ്പിക്കുന്ന പുതിയ മെറ്റീരിയലിനെക്കുറിച്ച് വിദ്യാർത്ഥികൾ പഠിക്കുന്നത് സംബന്ധിച്ച് അധ്യാപകർ അന്വേഷിക്കണം ഈ അന്വേഷണത്തിന്റെ ഉദ്ദേശ്യം വിദ്യാർത്ഥികളുടെ ധാരണ ശരിയായ ദിശകളിലാണോ നടക്കുന്നത് എന്ന് പരിശോധിക്കുക എന്നതാണ് ആശയങ്ങൾ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നുണ്ടോ നടപടിക്രമഘട്ടങ്ങൾ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് അടിസ്ഥാനപരമായി ഇത് വളരെ വേഗത്തിലും ഹ്രസ്വവുമായ രൂപീകരണ വിലയിരുത്തലാണ് ഈ അന്വേഷണത്തിന്റെ ഫലങ്ങൾ ചോദ്യങ്ങൾ അന്വേഷിക്കുന്നത് ആവശ്യമുള്ളിടത്ത് നിർദ്ദേശങ്ങൾ മികച്ചതാക്കാൻ ഇൻസ്ട്രക്ടറെ സഹായിക്കും നിർദ്ദേശം മെച്ചപ്പെടുത്തുന്നതിന് ഈ ഡാറ്റ സഹായകമാകും കൂടാതെ വിലയിരുത്തൽ ഘട്ടം ആയ സി നോക്കുമ്പോൾ ഞങ്ങൾ ഇത് കൂടുതൽ ചർച്ച ചെയ്യും ഈ അന്വേഷണ സമയത്ത് കാത്തിരിപ്പ് സമയം ശ്രദ്ധാപൂർവ്വം ആസൂത്രണം ചെയ്യേണ്ടതും പ്രധാനമാണ് രണ്ട് തരത്തിലുള്ള കാത്തിരിപ്പ് സമയങ്ങളുണ്ട് ഒന്ന് ഇൻസ്ട്രക്ടറുടെ അന്വേഷണത്തിനും വിദ്യാർത്ഥികളുടെ പ്രതികരണത്തിനും ഇടയിലാണ് ഞാൻ അവിടെ എത്ര കാത്തിരിപ്പ് സമയം അനുവദിക്കും വിദ്യാർത്ഥികളുടെ പ്രതികരണവും അധ്യാപകന്റെ പ്രതികരണവും തമ്മിലുള്ള മറ്റൊരു കാത്തിരിപ്പ് സമയം ഇവിടെയും നാം ശ്രദ്ധാപൂർവ്വം ആസൂത്രണം ചെയ്യണം വളരെയധികം കാത്തിരിപ്പ് സമയം ഒരുപക്ഷേ ക്ലാസ് അൽപ്പം അസ്വസ്ഥമാക്കുകയും ഒരുപക്ഷേ ശ്രദ്ധ നഷ്ടപ്പെടുകയും ചെയ്യും കാത്തിരിപ്പ് സമയം വളരെ ചെറുതാണെങ്കിൽ അധ്യാപകന്റെ ചോദ്യത്തോട് പ്രതികരിക്കാൻ വേണ്ടത്ര സമയം ലഭിക്കാത്തതിൽ വിദ്യാർത്ഥികൾക്ക് നിരാശ തോന്നാൻ സാധ്യതയുണ്ട് ഈ കാത്തിരിപ്പ് സമയം ശ്രദ്ധാപൂർവ്വം ആസൂത്രണം ചെയ്യണം സാഹചര്യപരമായ പല ഘടകങ്ങളും ഇവയെ സ്വാധീനിക്കുന്നു നമുക്ക് ഉള്ള പഠിതാക്കളുടെ തരം അവരുടെ തുല്യഗുണം പഠിപ്പിക്കുന്ന നിർദ്ദിഷ്ട കോഴ്സ് ക്ലാസ് റൂം സന്ദർഭം ഇവയെല്ലാം ചിത്രത്തിലേക്ക് വരും കാത്തിരിപ്പ് സമയം എന്തായിരിക്കണമെന്ന് പറയുന്ന ഒരു നിർദ്ദേശങ്ങളും ഇല്ല നിർദ്ദേശം യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്നതിനെ ആശ്രയിച്ച് ഇത് തീരുമാനിക്കേണ്ടത് അടിസ്ഥാനപരമായി ഇൻസ്ട്രക്ടർ തന്നെയാണ് തുടർന്ന് ഘട്ടം ബി പരിശീലനവുമായി ബന്ധപ്പെട്ടതാണ് നേടിയെടുക്കുന്ന കഴിവുകൾ പരിശീലിപ്പിക്കുന്നതിന് പഠിതാക്കൾക്ക് വളരെയധികം അവസരങ്ങൾ നൽകുന്നത് ഗുണനിലവാര പഠനത്തിന്റെ നിർണായക ഘടകമാണെന്ന് പരക്കെ സ്ഥിരീകരിക്കപ്പെടുന്നു വിദ്യാർത്ഥി പുതിയ അറിവ് നേടുന്നു ഒരു പ്രശ്നം എത്രയും വേഗം പരിഹരിക്കാൻ വിദ്യാർത്ഥിക്ക് ആ അറിവ് പ്രയോഗിക്കാൻ കഴിയുമെങ്കിൽ പഠനം കൂടുതൽ ആഴത്തിലാകുന്നു ആഴത്തിലുള്ള ധാരണ ലഭിക്കുന്നതിന് വിദ്യാർത്ഥികൾ അവരുടെ അറിവ് പ്രയോഗിക്കേണ്ടതുണ്ട് എന്നത് നന്നായി സ്ഥാപിതമായ പഠനതത്ത്വമാണിത് നേരിട്ടുള്ള നിർദ്ദേശമാതൃകയുടെ പ്രയോഗഘട്ടത്തിൽ മൂന്ന് വശങ്ങളുണ്ട് ഗൈഡഡ് പ്രാക്ടീസ് സ്വതന്ത്ര പരിശീലനം ആനുകാലിക അവലോകനം ഗൈഡഡ് പ്രാക്ടീസ് പേര് സൂചിപ്പിക്കുന്നത് പോലെ പ്രധാനമായും അർത്ഥമാക്കുന്നത് അധ്യാപകരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ വിദ്യാർത്ഥികൾ പുതുതായി നേടിയ അറിവും നൈപുണ്യവും പ്രയോഗിക്കുന്നു എന്നാണ് വിദ്യാർത്ഥികൾക്ക് സ്വതന്ത്രമായി അല്ലെങ്കിൽ ചെറിയ ഗ്രൂപ്പുകളായി പ്രവർത്തിക്കാൻ കഴിയും എന്നാൽ അധ്യാപകർ വിദ്യാർത്ഥികളുടെ പ്രവർത്തനം നിരീക്ഷിക്കുകയും അവരുടെ പരിശീലനത്തിൽ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിന് ഉടനടി ഫീഡ്ബാക്ക് നൽകുകയും വേണം ക്ലാസ് റൂം വലുപ്പം വളരെ വലുതായ ഒരു പരമ്പരാഗത ക്ലാസ് റൂം ക്രമീകരണത്തിൽ 60 70 വിദ്യാർത്ഥികളുള്ള ഒരു ക്ലാസ് ഉണ്ടാകുന്നത് അസാധാരണമല്ല ഒരു ഇൻസ്ട്രക്ടർക്ക് വിദ്യാർത്ഥികളുടെ പ്രവർത്തനം സൂക്ഷ്മമായി നിരീക്ഷിക്കാനും ഉപയോഗപ്രദമായ ഫീഡ്ബാക്ക് നൽകാനും വളരെ ബുദ്ധിമുട്ടാണ് ഈ ഭാഗം ഏതെങ്കിലും തരത്തിലുള്ള ട്യൂട്ടോറിയൽ മോഡിൽ പ്രവർത്തിപ്പിക്കണം അവിടെ ഒരു പ്രത്യേക ഇൻസ്ട്രക്ടറുടെയോ ഒരു ട്യൂട്ടറുടെയോ ശ്രദ്ധയോടെ 20 മുതൽ 25 വരെ വിദ്യാർത്ഥികൾ മാത്രമേ ഉള്ളൂ അത്തരം സന്ദർഭങ്ങളിൽ വിദ്യാർത്ഥികളുടെ പ്രവർത്തനം സൂക്ഷ്മമായി നിരീക്ഷിക്കാനും ഉടനടി ഫീഡ്ബാക്ക് നൽകാനും കഴിയും യഥാർത്ഥ നടപ്പാക്കൽ വീണ്ടും വകുപ്പാണ് നടപ്പാക്കേണ്ടത് ഇത് അടിസ്ഥാനപരമായി ഒരു തരം ട്യൂട്ടോറിയൽ മോഡ് ആണ് ട്യൂട്ടോറിയൽ സെഷനുകളിൽ ഇത് വളരെ വിപുലവും ഫലപ്രദവുമാണ് എന്നാൽ ഇത് മാർഗ്ഗനിർദ്ദേശ പരിശീലനമാണ് പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ അധ്യാപകൻ തിരഞ്ഞെടുക്കുന്നു അധ്യാപകന് നിയന്ത്രിക്കാ൯ കഴിയും ഇൻസ്ട്രക്ടറുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ വിദ്യാർത്ഥികൾ പരിശീലിക്കുന്നു തുടക്കത്തിൽ ഇത് കൂടുതൽ സ്വീകരിക്കും പരിശീലനം വിദ്യാർത്ഥികൾ പുതുതായി നേടിയ അറിവിൽ കൂടുതൽ സൌകര്യമുള്ളവരാകുകയും പുതുതായി നേടിയെടുത്ത ഈ അറിവ് ഉപയോഗിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അവർ കൂടുതൽ സമർത്ഥരാകുകയും ചെയ്യുമ്പോൾ ഇൻസ്ട്രക്ടറുടെ മെന്ററിംഗ് ക്രമേണ കുറയ്ക്കാൻ കഴിയും പഠിതാക്കൾ കൂടുതൽ സ്വതന്ത്ര പരിശീലനത്തിലേക്ക് നീങ്ങും പുതുതായി നേടിയ അറിവും നൈപുണ്യവും പ്രയോഗിക്കാൻ വിദ്യാർത്ഥികൾ സ്വതന്ത്രമായി ശ്രമിക്കും സമയഘടകങ്ങൾ കണക്കിലെടുത്ത് ഒരു ക്ലാസ് റൂം പശ്ചാത്തലത്തിൽ ഇത് വീണ്ടും ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് മിക്കപ്പോഴും ടേക്ക് ഹോം അസൈൻമെന്റുകളുടെ രൂപത്തിലാണ് ഇത് പുറത്ത് സംഭവിക്കുന്നത് ക്ലാസ് റൂം സന്ദർഭത്തിനകത്തും വേഗത്തിലും ഹ്രസ്വവുമായ അഭ്യാസങ്ങൾ നടത്താം ഇത് പ്രധാനമായും കോഴ്സിന്റെ സ്വഭാവം സിഒകളുടെ സ്വഭാവം ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന കഴിവുകളുടെ സ്വഭാവം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു ഇത് സംബന്ധിച്ച് ഇൻസ്ട്രക്ടർ ഒരു തീരുമാനം എടുക്കണം എന്നാൽ അധ്യാപകന്റെ മേൽനോട്ടം പിൻവലിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പുതുതായി നേടിയ അറിവിന്റെ പ്രയോഗം വിദ്യാർത്ഥികൾ സ്വതന്ത്രമായി പരിശീലിക്കുകയും ചെയ്യുന്നു എന്നതാണ് ആശയം സ്വതന്ത്ര പരിശീലനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം വിദ്യാർത്ഥികൾ ജോലി പൂർത്തിയാക്കണം എന്നതാണ് നൽകിയ ഏത് അസൈൻമെന്റും വിദ്യാർത്ഥികൾ പൂർത്തിയാക്കി യഥാസമയം സമർപ്പിക്കണം അതുപോലെ തന്നെ പ്രധാനമാണ് ഇത് അധ്യാപകൻ വളരെ ശ്രദ്ധാപൂർവ്വം വിലയിരുത്തണം എന്നത് വാസ്തവത്തിൽ അസൈൻമെന്റുകൾ ഒരു പതിവ് പ്രവർത്തനത്തിന്റെ സ്വഭാവത്തിലാണെന്നും വിദ്യാർത്ഥികൾ സമർപ്പിക്കുന്ന ഈ അസൈൻമെന്റുകൾ ഇൻസ്ട്രക്ടർമാർ ശ്രദ്ധാപൂർവ്വം വിലയിരുത്തുന്നില്ലെന്നും ആണ് ഞങ്ങൾ വിദ്യാർത്ഥികളിൽ നിന്ന് പലപ്പോഴും കേൾക്കുന്ന ഒരു പരാതി സ്വതന്ത്ര പരിശീലനം ശരിക്കും ഫലപ്രദമാകാൻ അധ്യാപകർ ഈ നിയമനങ്ങളെല്ലാം ശ്രദ്ധാപൂർവ്വം വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനം നൽകി വിദ്യാർത്ഥികളുടെ സ്വതന്ത്ര പരിശീലനം ശ്രദ്ധാപൂർവ്വം വിലയിരുത്തുകയും അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് ഫീഡ്ബാക്ക് നൽകുകയും വേണം ശരിയും തെറ്റും എന്താണെന്ന് അവരോട് പറയുക എന്തെങ്കിലും ശരിയാണെങ്കിൽ അത് എങ്ങനെ ശരിയാണ് എന്തെങ്കിലും തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് അത് തെറ്റാണ് സ്വതന്ത്ര പരിശീലനം പഠനത്തിന് സംഭാവന നൽകണമെങ്കിൽ ഇത്തരത്തിലുള്ള സൃഷ്ടിപരമായ ഫീഡ്ബാക്ക് വിദ്യാർത്ഥികൾക്ക് നൽകണം ആനുകാലിക അവലോകനം ഇത് ടീച്ചർ പ്രോബുകൾ ഗൈഡഡ് പ്രാക്ടീസ് സ്വതന്ത്ര പരിശീലനം എന്നിവയിൽ ഉൾപ്പെടുത്താം പ്രധാന സവിശേഷത അടുത്തിടെ നേടിയ അറിവും നൈപുണ്യവും നേരത്തെ നേടിയവയും ഉപയോഗിക്കാൻ ആവശ്യമായ ജോലികളിൽ വിദ്യാർത്ഥികൾ പരിശീലിക്കുന്നു എന്നതാണ് മുമ്പത്തെ സെഷനുകളിൽ നേടിയ അറിവും നൈപുണ്യവുമായി പുതുതായി നേടിയ അറിവും നൈപുണ്യവും സമന്വയിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ ഞങ്ങൾ എല്ലായ്പ്പോഴും ശ്രമിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണിത് ഈ സമന്വയ പ്രക്രിയയിൽ വിദ്യാർത്ഥികളെ ഏർപ്പെടുത്താൻ ഞങ്ങൾ പലപ്പോഴും ശ്രമിക്കുമ്പോൾ പഠനം ആഴമുള്ളതാകാനും പഠിച്ച കാര്യങ്ങൾ വിദ്യാർത്ഥികളുടെ ദീർഘകാല മെമ്മറിയിലേക്ക് പോകാനും സാധ്യതയുണ്ട് സാധ്യമാകുന്നിടത്തോളം പുതുതായി നേടിയ അറിവിനെ മുമ്പത്തെ അറിവുമായി സംയോജിപ്പിക്കാൻ വിദ്യാർത്ഥികളെ അനുവദിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഈ സംയോജിത അറിവും കഴിവുകളും ഉപയോഗിക്കുകയും ചെയ്യുന്നു അടിസ്ഥാനപരമായി വിദ്യാർത്ഥികൾ അടുത്തിടെ നേടിയ അറിവും നൈപുണ്യവും നേരത്തെ നേടിയവയും ഉപയോഗിക്കാൻ ആവശ്യമായ ടാസ്ക്കുകളിൽ പരിശീലിക്കുന്നു ഇത് പഠനപ്രക്രിയ അവലോകനം ചെയ്യാൻ ഇൻസ്ട്രക്ടറെ അനുവദിക്കുന്നു നേരത്തെ പഠിച്ച മെറ്റീരിയലിലേക്കുള്ള അത്തരമൊരു പുനരവലോകനം പഠനത്തെ വളരെ ഗണ്യമായി പ്രോത്സാഹിപ്പിക്കുന്നു ഇത്തരത്തിലുള്ള ഒരു അവലോകനം പലപ്പോഴും നടക്കുമ്പോൾ ഈ മെറ്റീരിയൽ വിദ്യാർത്ഥിയുടെ ദീർഘകാല മെമ്മറിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വളരെ ഗണ്യമായിത്തീരുന്നു മെറ്റീരിയൽ ദീർഘകാല മെമ്മറിയിലായിരിക്കുമ്പോൾ പോലും വിദ്യാർത്ഥികൾക്ക് ആ വിവരങ്ങൾ വീണ്ടെടുക്കാനും ഉചിതമായി ഉപയോഗിക്കാനും പരിശീലനം ആവശ്യമാണ് പഠിതാക്കൾ ഇതിനകം തന്നെ ഈ മെറ്റീരിയൽ ദീർഘകാല മെമ്മറിയിൽ അയച്ചിട്ടുണ്ടെങ്കിൽപ്പോലും ആ വിവരങ്ങൾ തിരിച്ചുവിളിക്കാനും ഉചിതമായ രീതിയിൽ ഉപയോഗിക്കാനും വിദ്യാർത്ഥികളെ സഹായിക്കുന്നത് മൂല്യവത്താണ് അതിനാൽ ആനുകാലിക അവലോകനം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് തീർച്ചയായും കർശനമായ ഷെഡ്യൂളുകൾ കണക്കിലെടുക്കുമ്പോൾ ഒരാൾക്ക് എത്രമാത്രം ആനുകാലിക അവലോകനം ചെയ്യാൻ കഴിയും എന്നത് ഇൻസ്ട്രക്ടർ തീരുമാനിക്കേണ്ടതുണ്ട് പക്ഷേ പരിമിതികൾ അനുവദിക്കുന്ന പരിധിവരെ ആനുകാലിക അവലോകനം നടക്കുന്നുവെന്ന് ഇൻസ്ട്രക്ടർ ഉറപ്പാക്കണം ഘട്ടം സി വിലയിരുത്തൽ പഠനത്തിന്റെ നിർണ്ണായക ഘടകമാണ് വിലയിരുത്തലും എന്ന് പല യൂണിറ്റുകളിലും ഞങ്ങൾ ഊന്നിപ്പറഞ്ഞു ഗുണനിലവാര വിലയിരുത്തൽ ഗുണനിലവാര പഠനത്തെ നയിക്കുന്നു രൂപവത്കരണ മൂല്യനിർണ്ണയവും സംഗ്രഹാത്മക വിലയിരുത്തലുകളും അത്യാവശ്യമാണ് ഫോർമാറ്റീവ് അസസ്മെന്റും മൂല്യനിർണ്ണയവും പഠനം മെച്ചപ്പെടുത്തുന്നതിന് നിർദ്ദേശങ്ങൾക്ക് എന്തെങ്കിലും മിഡ്കോഴ്സ് തിരുത്തലോ അധിക നിർദ്ദേശ സെഷനുകളോ ആവശ്യമുണ്ടോ എന്ന് തീരുമാനിക്കാൻ വിലയിരുത്താവുന്ന ഡാറ്റ ശേഖരിക്കുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യം അതിനാൽ ഫോർമാറ്റീവ് അസസ്മെന്റിന്റെ പ്രാഥമിക ലക്ഷ്യം ഡയഗ്നോസ്റ്റിക് സ്വഭാവമാണ് അന്വേഷിക്കുന്നതിൽ നിന്നും പ്രതികരിക്കുന്നതിൽ നിന്നും ഞങ്ങൾക്ക് നേരത്തെ ലഭിച്ച ഡാറ്റ പരിശീലന സമയത്ത് ഇൻസ്ട്രക്ടർ നടത്തിയ നിരീക്ഷണങ്ങൾ ഒപ്പം ആനുകാലിക അവലോകനവും ഈ പ്രവർത്തനങ്ങളെല്ലാം ഇൻസ്ട്രക്ടർക്ക് ഗണ്യമായ ഡാറ്റ നൽകുന്നു ഏതെങ്കിലും മിഡ്കോഴ്സ് തിരുത്തലിന്റെ ആവശ്യകത നിർണ്ണയിക്കുന്നതിനൊപ്പം ഏതെങ്കിലും അധിക നിർദ്ദേശ സെഷനുകളുടെ ആവശ്യകതയും നിർണ്ണയിക്കാൻ ഇൻസ്ട്രക്ടർക്ക് ഈ ഡാറ്റയെല്ലാം ഉപയോഗിക്കാൻ കഴിയും കൂടാതെ ഞങ്ങൾക്ക് നിർദ്ദിഷ്ട ഫോർമാറ്റീവ് അസസ്മെൻറുകൾ നൽകാനും കഴിയും കോഴ്സിലെ ക്വിസുകൾ പോലെ മിക്കപ്പോഴും അധ്യാപകർ ഇത്തരത്തിലുള്ള അധിക നിർദ്ദിഷ്ട ഫോർമാറ്റീവ് അസസ്മെന്റ് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു പതിവ് അന്വേഷണത്തിനും പ്രതികരണത്തിനും പുറമെ പരിശീലനത്തിനിടയിലുള്ള നിരീക്ഷണങ്ങളും ആനുകാലിക അവലോകനവും കൂടാതെ നിർദ്ദിഷ്ട മൂല്യനിർണ്ണയ ഉപകരണങ്ങൾ ഫോർമാറ്റീവ് അസസ്മെന്റ് ആവശ്യങ്ങൾക്കായി നൽകാം സംഗ്രഹാത്മക വിലയിരുത്തൽ അടിസ്ഥാനപരമായി സംഗ്രഹാത്മക വിലയിരുത്തലിൽ നിന്നുള്ള ഡാറ്റ നിരന്തരമായ ആന്തരിക വിലയിരുത്തലിന്റെ ഭാഗമായ ഉപകരണങ്ങൾ ആണ് നൽകുന്നത് നേരത്തെ ചർച്ച ചെയ്തതുപോലെ സിഒകളുടെ നേട്ടം കണക്കാക്കുന്നതിന് ഇത് ഉപയോഗിക്കുന്നു തുടർച്ചയായ ആന്തരിക വിലയിരുത്തലിനിടെ സംഗ്രഹാത്മക വിലയിരുത്തലിൽ നിന്നുള്ള ഫലങ്ങൾ രൂപവത്കരണ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം ഏതെങ്കിലും മിഡ്കോഴ്സ് തിരുത്തലുകൾ ആവശ്യമുണ്ടോ എന്ന് നിർണ്ണയിക്കാൻ ഏതെങ്കിലും പ്രത്യേക സിഒ യോഗ്യത ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അധിക നിർദ്ദേശം ആവശ്യമാണ് മൂല്യനിർണ്ണയ ഉപകരണങ്ങളുടെ പ്രാഥമിക ലക്ഷ്യം സംക്ഷിപ്തമാണെങ്കിലും ഡാറ്റ തീർച്ചയായും ഒരു രൂപവത്കരണ രീതിയിലും ഉപയോഗിക്കാം തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ പലതവണ ഊന്നിപ്പറഞ്ഞതുപോലെ എല്ലാ വിലയിരുത്തലുകളും സിഒകളുമായി വിന്യസിക്കണം എന്നതാണ് കോഴ്സ് സെമസ്റ്റർ അവസാന പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് ഫീഡ്ബാക്ക് നൽകുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെയധികം ചെയ്യാനാകില്ല കാരണം ഇതിനകം തന്നെ വിദ്യാർത്ഥികൾ ഈ ക്ലാസ് പൂർത്തിയാക്കിയിരിക്കും ഒടുവിൽ ഘട്ടം ഡി നിരീക്ഷണത്തിലും ഫീഡ്ബാക്കിലും രണ്ട് നിർദ്ദേശപരമായ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നു അവ നിർദ്ദേശങ്ങളിലുടനീളം ആവശ്യമുള്ളത്ര തവണ സംഭവിക്കണം സൂചനകളും ആവശ്യങ്ങളും തിരുത്തൽ ഫീഡ്ബാക്കും ശക്തിപ്പെടുത്തലും മുമ്പത്തെ മെറ്റീരിയൽ അവലോകനം ചെയ്യുമ്പോൾ സൂചനകളും പ്രോംപ്റ്റുകളും ഉപയോഗിക്കുന്നു പരിശോധിക്കുന്ന സമയത്ത് ഇൻസ്ട്രക്ടർ ചോദ്യങ്ങൾ ചോദിക്കുന്നു അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഗൈഡഡ് പരിശീലനത്തിൽ ഏർപ്പെടുന്നു അടിസ്ഥാനപരമായി ഈ സൂചകങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും ആശയം ഇതാണ് വിദ്യാർത്ഥികൾ പരിഹാരത്തിനടുത്ത് എത്തുമ്പോഴും കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയാതെ വരുമ്പോൾ വിദ്യാർത്ഥികളെ ശരിക്കും തടയുന്ന ഒരു ചെറിയ സ്റ്റിക്കി പോയിന്റുണ്ട് അതിനാൽ ഒരു ക്യൂ അല്ലെങ്കിൽ പ്രോംപ്റ്റ് നൽകിക്കൊണ്ട് ഇൻസ്ട്രക്ടർക്ക് വിദ്യാർത്ഥികളെ സഹായിക്കാൻ കഴിയും അത് വിദ്യാർത്ഥികളിൽ നിന്ന് ഉചിതമായ പ്രതികരണങ്ങൾ പ്രാപ്തമാക്കും അതുവഴി അവർക്ക് ആ ചുമതല പൂർത്തിയാക്കാൻ കഴിയും ആവർത്തിച്ചുള്ള സൂചനകളും പ്രോംപ്റ്റുകളും ലഭിച്ചിട്ടും വിദ്യാർത്ഥികൾ ചുമതല പൂർത്തിയാക്കുന്നതിൽ പരാജയപ്പെട്ടാൽ കൂടുതൽ നിർദ്ദേശങ്ങൾ ആവശ്യമായി വരാം വിദ്യാർത്ഥികളുടെ ധാരണയിൽ വിടവുകളുണ്ട് കൂടാതെ പഠനത്തിന് അധിക മെറ്റീരിയലോ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടറുടെ കൂടുതൽ നിർദ്ദേശങ്ങളോ നൽകേണ്ടത് ആവശ്യമാണ് അതിനാൽ ഈ സൂചനകളും നിർദ്ദേശങ്ങളും പഠിതാക്കൾക്ക് അവരുടെ പാതയിൽ നിലനിൽക്കുന്ന ചെറിയ ഇടർച്ചകളെ മറികടക്കാൻ സഹായിക്കും തിരുത്തൽ ഫീഡ്ബാക്കും ശക്തിപ്പെടുത്തലും വീണ്ടും വളരെ അത്യാവശ്യമാണ് വിദ്യാർത്ഥിയുടെ പഠനത്തിന്റെ ഓരോ വിലയിരുത്തലിനുശേഷവും ഇൻസ്ട്രക്ടർ തിരുത്തൽ ഫീഡ്ബാക്കും ശക്തിപ്പെടുത്തലും നൽകണം പ്രബോധന സമയത്ത് രൂപവത്കരണവും സംഗ്രഹവും തീർച്ചയായും ഞാൻ സൂചിപ്പിച്ചതുപോലെ സെമസ്റ്റർ അവസാന പരീക്ഷ ഒരു അപവാദമാണ് സെമസ്റ്റർ അവസാന പരീക്ഷയ്ക്ക് ശേഷം ഞങ്ങൾക്ക് ഒരു ഫീഡ്ബാക്കും നൽകാനാവില്ല വിലയിരുത്തലും ഫീഡ്ബാക്കും തമ്മിലുള്ള കാലതാമസം ഇത് ശരിക്കും ഫലപ്രദമാക്കാൻ കഴിയുന്നത്ര ചെറുതായിരിക്കണം എല്ലാ ഇൻസ്ട്രക്ടർമാരും ഓർമ്മിക്കേണ്ട മറ്റൊരു പ്രധാന ഘടകമാണിത് വിലയിരുത്തലും ഫീഡ്ബാക്കും തമ്മിലുള്ള കാലതാമസം കഴിയുന്നത്ര ചെറുതായിരിക്കണം നിങ്ങൾ ഒരു ആന്തരിക വിലയിരുത്തൽ പരിശോധന നടത്തുകയാണെങ്കിൽ അത് എത്രയും വേഗം വിലയിരുത്തുകയും തിരുത്തൽ ഫീഡ്ബാക്ക് വിദ്യാർത്ഥികൾക്ക് നൽകുകയും വേണം ഇത് സാധാരണയായി വിദ്യാർത്ഥികളുടെ നേട്ടവുമായി ഏറ്റവും ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇൻസ്ട്രക്ടർക്ക് ചെയ്യാവുന്ന മറ്റേതൊരു നടപടിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് ആശ്ചര്യകരമായി തോന്നുന്നു പക്ഷേ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന വേഗതയേറിയ ഫീഡ്ബാക്ക് മികച്ചതാണെന്ന് കാണിക്കുന്നതിന് ധാരാളം തെളിവുകൾ ഉണ്ട് അതിനാൽ വിലയിരുത്തലും ഫീഡ്ബാക്കും തമ്മിലുള്ള കാലതാമസം കഴിയുന്നത്ര ചെറുതായിരിക്കണം ഒരു പ്രത്യേക ഉത്തരം തെറ്റോ ശരിയോ എന്തുകൊണ്ട് തെറ്റ് എന്തുകൊണ്ട് ശരി എന്നറിയാൻ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിന് ഫീഡ്ബാക്ക് നൽകണം വിദ്യാർത്ഥികൾക്ക് നൽകുന്ന അറിവിനെക്കുറിച്ച് സമഗ്രമായ ധാരണ ഉണ്ടായിരിക്കണം വിദ്യാർത്ഥികളെ സഹായിക്കുന്ന ഈ മനോഭാവത്തിൽ ഫീഡ്ബാക്ക് നൽകണം അതിനാൽ വ്യക്തമായും ഒരു തരത്തിലുള്ള പരിഹാസമോ അല്ലെങ്കിൽ വിദ്യാർത്ഥിയെ ശല്യപ്പെടുത്തുന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളോ ഒഴിവാക്കണം വിദ്യാർത്ഥികളെ നന്നായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന സഹായിക്കുന്ന സ്വഭാവത്തിലാണ് ഫീഡ്ബാക്ക് നൽകേണ്ടത് ശക്തിപ്പെടുത്തൽ അക്കാദമിക് നേട്ടത്തെ ക്രിയാത്മകമായി വിലമതിക്കുന്നതും വിദ്യാർത്ഥികളെ കൂടുതൽ പ്രചോദിതരാക്കാൻ സഹായിക്കുന്നു തീർച്ചയായും ഇത് ചെയ്യുമ്പോൾ താഴ്ന്ന നേട്ടക്കാരെ ഞങ്ങൾ പരിഹസിക്കുന്നില്ലെന്ന് ഉറപ്പാക്കണം അപമാനകരമായ തരത്തിലുള്ള താരതമ്യങ്ങളൊന്നുമില്ല എന്നാൽ ഒരു നല്ല വിലമതിപ്പ് വിദ്യാർത്ഥികളെ സഹായിക്കുന്നു ക്രിയാത്മകമായ അഭിനന്ദനം മികച്ച പ്രചോദനത്തെ സഹായിക്കുന്നു അതിനാൽ ശക്തിപ്പെടുത്തൽ നടത്താം അതും ഗുണനിലവാരമുള്ള പഠനത്തിന് കാരണമാകുന്നു ഈ ഘട്ടം ഇനിപ്പറയുന്ന അർത്ഥത്തിൽ മുമ്പത്തെ ഘട്ടത്തിൽ നിന്ന് വിലയിരുത്തൽ വ്യത്യസ്തമാണ് വിലയിരുത്തൽ തികച്ചും ഘടനാപരമാണ് ഷെഡ്യൂൾ ചെയ്ത സമയങ്ങളിൽ ഇത് വളരെ ഘടനാപരമായ രീതിയിൽ സംഭവിക്കുന്നു അതേസമയം ആവശ്യാനുസരണം നിർദ്ദേശങ്ങളിൽ ഉടനീളം നിരീക്ഷണവും ഫീഡ്ബാക്കും സംഭവിക്കുന്നു ഇവിടെ അവതരിപ്പിച്ച നേരിട്ടുള്ള നിർദ്ദേശത്തിന്റെ ട്രാൻസാക്ഷണൽ മോഡലിന് 4 ഘട്ടങ്ങളിലായി 12 നിർദ്ദേശ പ്രവർത്തനങ്ങളുണ്ട് ഞങ്ങൾ അത് കണ്ടു മെറിലിന്റെ ആദ്യത്തെ അഞ്ച് പഠന തത്ത്വങ്ങളും ആ തത്ത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഐഡിയും മുമ്പത്തെ യൂണിറ്റിൽ ഞങ്ങൾ ചർച്ചചെയ്തു നേരിട്ടുള്ള നിർദ്ദേശമാതൃകയിലെ പ്രബോധനപ്രവർത്തനങ്ങളുടെ സങ്കേതഭാഷയും ഓർഗനൈസേഷനും മെറിലിന്റെ തത്ത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഐഡിയിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിലും ഇവ രണ്ടും തമ്മിൽ നല്ല യോജിപ്പ് ഉണ്ട് ആദർശത്തിൽ അവ തികച്ചും സമാനമാണ് ഉപയോഗിച്ച യഥാർത്ഥ വ്യവസ്ഥകൾ വ്യത്യസ്തമാണ് ഈ താരതമ്യം നമുക്ക് ഇവിടെ വളരെ എളുപ്പത്തിൽ കാണാൻ കഴിയും ആദ്യത്തെ മൂന്ന് പ്രവർത്തനങ്ങൾ അവലോകനം എന്ത് എന്തുകൊണ്ട് അവ മെറിലിന്റെ തത്ത്വങ്ങൾ അല്ലെങ്കിൽ മെറിലിന്റെ സജീവമാക്കൽ തത്ത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള ഐഡിയുടെ സജീവമാക്കലിനും ശ്രദ്ധയ്ക്കും യോജിക്കുന്നു വിശദീകരണം വ്യക്തമായും പ്രകടമാണ് അന്വേഷണവും പ്രതികരണവും ഒന്നിച്ച് പ്രയോഗവും വിലയിരുത്തലും ആണ് കാരണം വിദ്യാർത്ഥികൾ പഠിച്ച അറിവ് പ്രയോഗിക്കുകയും അധ്യാപകർ അവരുടെ പഠനത്തിന്റെ ഗുണനിലവാരം എന്താണെന്ന് വിലയിരുത്തുകയും ചെയ്യുന്നു തുടർന്ന് ഗൈഡഡ് പ്രാക്ടീസ് സ്വതന്ത്ര പരിശീലനം പ്രയോഗവും പ്രകടനവുമാണ് വിദ്യാർത്ഥികൾ പുതുതായി നേടിയ അറിവും നൈപുണ്യവും പ്രയോഗിക്കുന്നു ആവശ്യമുള്ളപ്പോൾ ഇത് ഇൻസ്ട്രക്ടറും പ്രദർശിപ്പിക്കുന്നു ആനുകാലിക അവലോകനം മെറിലിന്റെ പ്രതിഫലന തത്ത്വത്തെ ഭാഗികമായി അഭിസംബോധന ചെയ്യുന്നു തുടർന്ന് ഫോർമാറ്റീവ് അസസ്മെന്റ് സംഗ്രഹാത്മക വിലയിരുത്തൽ സൂചനകളും പ്രോംപ്റ്റുകളും തിരുത്തൽ ഫീഡ്ബാക്ക് അടിസ്ഥാനപരമായി ഇത് വിദ്യാർത്ഥികൾ അവരുടെ അറിവും നൈപുണ്യവും പ്രകടനവും പ്രയോഗിക്കുന്ന ആപ്ലിക്കേഷന്റെ സംയോജനമാണ് ഇവിടെ ഇൻസ്ട്രക്ടർ ആവശ്യത്തെ അടിസ്ഥാനമാക്കി ആവശ്യമായ അറിവും നൈപുണ്യവും പ്രകടമാക്കുന്നു മുമ്പത്തെ യൂണിറ്റുകളിൽ ഇതിനകം നേടിയ അറിവും നൈപുണ്യവും ഉപയോഗിച്ച് വിദ്യാർത്ഥികൾ പുതുതായി നേടിയ അറിവിനെ സമന്വയിപ്പിക്കുന്ന ഭാഗികമായ പ്രതിഫലനമാണ് നിബന്ധനകൾ വ്യത്യസ്തമാണെങ്കിലും അടിസ്ഥാനപരമായി ഇവ രണ്ടും തമ്മിൽ ഗണ്യമായ തരത്തിലുള്ള മാപ്പിംഗ് ഉണ്ട് ഈ മോഡലും മെറിലിന്റെ തത്ത്വങ്ങളും തമ്മിലുള്ള ഈ യോജിപ്പ് നാം കാണേണ്ടതുണ്ട് അവിടെ യഥാർത്ഥ രീതികളും യഥാർത്ഥ രീതികളിൽ നിന്നുള്ള അനുഭവപരമായ ഡാറ്റയും ലഭ്യമാണ് നേരിട്ടുള്ള സമീപന നിർദ്ദേശ മോഡലിന്റെ നടപ്പാക്കലിലും വളരെ നല്ല ഒരു റഫറൻസ് ലഭ്യമാണ് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഇവയിലേക്ക് റഫർ ചെയ്യാം ഇത്തരത്തിലുള്ള സൈദ്ധാന്തിക തത്വങ്ങളെ പിന്തുണയ്ക്കുന്നതിന് ഏത് തരത്തിലുള്ള അനുഭവാത്മക ഡാറ്റ ലഭ്യമാണ് എന്ന് കാണുക അഭ്യാസം നേരിട്ടുള്ള നിർദ്ദേശത്തെ അടിസ്ഥാനമാക്കി ഒരു കോഴ്സ് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ഉപയോഗിച്ച പ്രബോധന പ്രവർത്തനങ്ങളും അവയുടെ ക്രമവും വിവരിക്കുക അഭ്യാസത്തിന്റെ ഫലങ്ങൾ story com ൽ പങ്കിട്ടതിന് നന്ദി അടുത്ത യൂണിറ്റിൽ നിർദ്ദേശങ്ങളോടുള്ള പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനം മനസ്സിലാക്കാൻ ഞങ്ങൾ ശ്രമിക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി പ്രബോധന സമീപനങ്ങളുണ്ട് മെറിലിന്റെ വിശാലമായ തത്ത്വങ്ങൾ ബാധകമാണെങ്കിലും നിർദ്ദിഷ്ട സമീപനങ്ങൾ വിദ്യാർത്ഥികൾ പഠനത്തെ എങ്ങനെ കാണുന്നു എന്നതിന്റെ വിശദാംശങ്ങളിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു നേരിട്ടുള്ള നിർദ്ദേശത്തിന്റെ ട്രാൻസാക്ഷണൽ മാതൃക ഞങ്ങൾ കണ്ടു അടുത്ത 3 4 യൂണിറ്റുകളിൽ നിർദ്ദേശത്തിനായുള്ള മറ്റ് ചില ജനപ്രിയ സമീപനങ്ങൾ ഞങ്ങൾ നോക്കുന്നു അടുത്ത യൂണിറ്റിൽ നിർദ്ദേശങ്ങളോടുള്ള പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനമാണ് ഞങ്ങൾ നോക്കുന്നത് നന്ദി ഞങ്ങൾ വീണ്ടും സന്ദർശിക്കാം